നിരവധി പോയിന്റ് ചാർജുകൾ മൂലമുള്ള കൂളംബ് ഫോഴ്സ് കൂളംബ് ഫോഴ്സ് സൂപ്പർപോസിഷൻ തത്വം പിന്തുടരുന്നു അതായത് നിരവധി ചാർജുകൾ മൂലമുള്ള ഫോഴ്സ് അവയുടെ ഓരോന്നിന്റെയും ഫോഴ്സ് കളുടെ ആകെത്തുകയായിരിക്കും ഇതാണ് നാം ഇതു വരെ പഠിച്ചത് ഇപ്പോൾ ഈ സ്വഭാവം കൊണ്ട് ഞാൻ Q1Q2Q3Q4 എന്നിങ്ങനെ ചാർജുകൾ എടുത്ത് q എന്ന ചാർജിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഇത് അകലം r1 ഇത് അകലം r2 ഇത് അകലം r3 ഇത് അകലം r4 ഞാൻ ഇവ വെക്റ്ററുകൾ ആയി എഴുതുന്നു അപ്പോൾ ഇതെല്ലാം വെക്റ്ററുകൾ ആണ് അപ്പോൾ q വിലുള്ള ആകെ ഫോഴ്സ് എല്ലാത്തിന്റെയും വെക്ടർ സമ്മേഷൻ ആയിരിക്കും 14πϵ0 എല്ലാത്തിനും പൊതുവായിരിക്കും q1r122 r1 യൂണിറ്റ് വെക്ടർ q2r22 r2 യൂണിറ്റ് വെക്ടർ എന്നിങ്ങനെ വെക്റ്ററുകൾ എഴുതിയിരിക്കുന്ന രീതി അവ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ദിശകളെല്ലാം ശരിയായി കൈകാര്യം ചെയ്തിരിക്കുന്നു എന്ന് കാണുക അപ്പോൾ ആകെ ഫോഴ്സ് F എന്നത് q വിലുള്ള 14πϵ0 ഗുണം q iri സ്ക്വയർ ri യൂണിറ്റ് വെക്ടർ എന്നതിന്റെ സമ്മേഷൻ ആണ് ചിലപ്പോൾ ഇത് 14πϵ0 ക്യൂബ് സമ്മേഷൻ i q iri3 എന്നെനിയ്ക്കെഴുതാൻ സാധിക്കും ഇതിനെ ഒരു വെക്ടർ ആക്കാം എന്തെന്നാൽ ri വെക്ടറിനെ ri കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുക ri ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഇത് സൂപ്പർപോസിഷൻ തത്വം എന്നും അറിയപ്പെടുന്നു ഇതിനർത്ഥം ചാർജ് Q1 ഇരട്ടിക്കുകയാണെങ്കിൽ Q1 മൂലമുള്ള ഫോഴ്സ് വും ഇരട്ടിക്കുന്നു അപ്പോൾ ഇത് ചില കോൺഫിഗറേഷനുകളുടെ ഫോഴ്സ് കണക്കാക്കുന്നതിനായി നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണം ഒന്ന് രണ്ടു ചാർജുകൾ ഉണ്ടെന്ന് വയ്ക്കുക രണ്ടു ചാർജുകൾ നിശ്ചിത അകലത്തിൽ ഇത് x y തലത്തിലാണെന്ന് വിചാരിക്കുക ഈ ചാർജ് Q ഇതും Q ഇവ രണ്ടും a അകലത്തിൽ ഞാൻ മൂന്നാമതൊരു ചാർജ് q ഇവയിൽ നിന്നും x അകലത്തിൽ വയ്ക്കുന്നു q വിലെ ഫോഴ്സ് കണ്ടുപിടിക്കുക അപ്പോൾ q വിലെ ഫോഴ്സ് നാം മുൻപ് പറഞ്ഞത്പോലെ മുകളിലെ ചാർജ് മൂലമുള്ളതായിരിക്കും നമുക്കിതിനെ 1 എന്ന് വിളിക്കാം ഇതിനെ 2 എന്നും അപ്പോൾ ഈ ഫോഴ്സ് 1 മൂലവും 2 മൂലവും ഉള്ളതിന്റെ തുകയായിരിക്കും ഇത് ഒരു വെക്ടർ ഫോഴ്സ് ആണ് ശരി നമുക്ക് ചാർജ് ഒന്ന് എടുക്കാം എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഇത് ചാർജ് 1 ഇത് ചാർജ് q ഇത് x അകലത്തിൽ ഇത് a2 അകലത്തിൽ ഫോഴ്സ് ഈ വെക്ടർ നൽകാൻ പോകുകയാണ് അപ്പോൾ F എന്നത് 14πϵ0 Q q ഭാഗം ഈ അകലം എന്താണ് ഇത് x സ്ക്വയർ a സ്ക്വയർ 4 എന്നതിന്റെ സ്ക്വയർറൂട്ട് ആണ് അതിന്റെ സ്ക്വയർ റൂട്ട് എന്നത് x സ്ക്വയർ a സ്ക്വയർ 4 ഗുണം ഈ ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ അപ്പോൾ എന്താണ് ഈ വെക്ടർ അത് ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഇത് xx a 2 ഗുണം y ആണ് അതായത് എ വെക്ടർ ചാർജ് 1 ൽ നിന്നും q വി ലേക്ക് മാറ്റുന്നു ചാർജ് 1 ൽ നിന്നും q വിലേക്ക് അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്നത് ഈ വെക്ടർ xx ay മുതൽ വൈ ഭാഗം അതിന്റെ അളവ് വരെ അതായത് എക്സ് സ്ക്വയർ അധികം എ സ്ക്വയർ ഭാഗം നാല് എന്നതിന്റെ സ്ക്വയർ റൂട്ട് ആണ് അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇടുകയാണ് എനിക്ക് യൂണിറ്റ് വെക്ടർ എക്സ് എക്സ് മൈനസ് എ വൈ ഭാഗം രണ്ട് ഗുണം വൈ യെ എക്സ് സ്ക്വയർ അധികം എ സ്ക്വയർ ഭാഗം നാല് റൈസ്ഡ് ഒന്നര ആണ് അതിനാൽ എൻറെ അവസാന ഉത്തരം 14πϵ0 Q q ഭാഗം x2 ay2 32 ഈ അകലത്തെ xx ay 2 വെക്ടർ കൊണ്ട് ഗുണിച്ചത് മാത്രമാണ് ഞാൻ ഇത് ഒന്നുകൂടി എഴുതാം എനിക്ക് ഈ പറയുന്ന വിന്യാസം ഉണ്ട് ചാർജ് Q ഇവിടെ ചാർജ് Q ഇവിടെ ചാർജ് q ഇവിടെ x a2 a2 അകലത്തിൽ ഞാൻ ഇതിനെ ചാർജ് 1 എന്ന് വിളിക്കുന്നു ഇതിനെ ചാർജ് 2 എന്ന് വിളിക്കുന്നു അപ്പോൾ ഫോഴ്സ് F1 1 4 πϵ0 ഗുണം Qqx2a24 32 എന്ന് കിട്ടും ഇത് അർത്ഥവത്താണോ എന്ന നമുക്ക് നോക്കാം ഇത് x ദിശയിലെ ഫോഴ്സ് ഇങ്ങോട്ടും y ദിശയിലെ ഫോഴ്സ് എതിർവശത്തേക്കും ആണ് എന്ന് പറയുന്നു ഇത് വളരെ ശരിയാണ് എന്തെന്നാൽ ആകെ ഫോഴ്സ് ഇങ്ങനെയാണ് x ഘടകം ഇങ്ങിനെയും y ഘടകം ഇങ്ങിനെയും എനിക്ക് ഇത് പോലെ F2 എഴുതാൻ സാധിക്കും F2 വും ഇതേ അളവാണ് അത് ഈ വെക്ടർ ദിശയിൽ ആണെന്ന് മാത്രം ഈ വെക്ടർ എന്താണ് ഇത് xx a2y അതായത് xxa2y അതിനാൽ F2 ഇങ്ങനെ എഴുതാൻ സാധിക്കും 1 4πϵ0 ഗുണം Qqx2 a2432 ഇത് അതേ അകലമാണ് ഈ അകലവും മുകളിലെ അകലവും തുല്യമാണ് a വെക്ടർ ഇവിടെ xxa2y എന്ന് മാറുന്നു അപ്പോൾ നിങ്ങൾ രണ്ടു ഫോഴ്സ് ങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞു അവയെ കൂട്ടുക ആകെ ഫോഴ്സ് ലഭിക്കും ഇത് 1 4 πϵ0 ഗുണം Qqx2 a2432 ഈ ഭാഗം ക്യാന്സലാകുമെന്നു കാണുക ഒന്ന് പോസിറ്റീവ് ചിഹ്നവും ഒന്ന് നെഗറ്റീവ് ചിഹ്നവും ഗുണം 2xx ഇതാണ് ഉത്തരം കുറിപ്പ് ഒന്ന് x 0 ആണെങ്കിൽ F പൂജ്യമാണ് ഇത് അർത്ഥവത്താണ് എന്തെന്നാൽ ഈ ചാർജ് ഇവിടെയാണ് ഇയാൾ ഇങ്ങോട്ടു തള്ളുന്നു മറ്റെയാൾ ഇങ്ങോട്ടു തള്ളുന്നു അങ്ങനെ ആകെ ഫോഴ്സ് പൂജ്യമാകുന്നു രണ്ട് x വളരെ വലുതാണെങ്കിൽ എനിക്ക് a സ്ക്വയർ 4 തള്ളിക്കളയാം അപ്പോൾ ആകെ ഫോഴ്സ് F 14 πϵ0 ഗുണം 2qqxസ്ക്വയർ ആകുന്നു അതിനാൽ മധ്യത്തിൽ 2q ചാർജ് ഉള്ള പോലെ ഫോഴ്സ് q വിൽ ചെലുത്തുന്നു അപ്പോൾ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കാണാൻ കഴിയും അതിനാൽ അവസാനമായി നാം ഒന്നാമധ്യായത്തിൽ കൂളംബ് നിയമം എന്താണെന്നു കണ്ടു ഒരു ചാർജിൽ മറ്റ് ഒന്നിലധികം പോയിന്റ് ചാർജുകൾ ചെലുത്തുന്ന ഫോഴ്സ് കണക്കാക്കാൻ പഠിച്ചു അടുത്ത ലെക്ചരിൽ വിന്യസിക്കപ്പെട്ട ചാർജുകളെയും ചാർജ് വിന്യാസത്തെയും ഈ വിന്യാസം മൂലമുള്ള ഫോഴ്സ് കണക്കാക്കുന്നതിനെക്കുറിച്ചും നോക്കാം